സ്വാഗതം അളവുകൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ പ്രഭാഷണം തുടരുന്നു നമ്മൾ അളക്കൽ വർഗ്ഗീകരണം ചർച്ചചെയ്തു അളക്കൽ കൃത്യതയുടെ സിദ്ധാന്തം സിദ്ധാന്തം എങ്ങനെ വികസിപ്പിച്ചെടുക്കുന്നു നമ്മൾ എങ്ങനെ കണക്കുകൂട്ടലുകൾ നടത്തും അതിനാൽ കണക്കുകൂട്ടലുകളുടെ പ്രചരണം നടക്കുന്ന വിവിധ വഴികൾ എന്തൊക്കെയാണ് അതിനാൽ ഇത് ഇതുപോലെ പോകുന്നു നമ്മൾ ചർച്ച ചെയ്തതുപോലെ യഥാർത്ഥ മൂല്യം പരമ്പരാഗത യഥാർത്ഥ മൂല്യം അളക്കൽ ഫലങ്ങൾ വഴി ലഭിക്കും എനിക്ക് കുറച്ച് പിശക് ഉണ്ട് അതിനാൽ ഇന്റർ ഡിറ്റർമിനൻസി ഉള്ളതിനോ അല്ലെങ്കിൽ ചില അനുമാനങ്ങൾ നേടുന്നതിനോ ഉപയോഗിക്കുന്ന പിശക് അതിനാൽ പിശകുകളെ അടിസ്ഥാനമാക്കി അളക്കൽ ഫലങ്ങളുടെ ഒരു അന്തർ നിർണ്ണയം ഉണ്ട് അത് നമുക്ക് നൽകുന്നു ഫലങ്ങളെക്കുറിച്ചുള്ള ചില വ്യാഖ്യാനങ്ങൾ അതായത് നമ്മുടെ ഫലങ്ങൾ എത്രത്തോളം ശരിയാണ് അതിനാൽ അടുത്തത് സാധുവായ അളവാണ് അളവ് സാധുതയുള്ളതാണെന്നത് വളരെ പ്രധാനമാണ് അതിനാൽ ഡോക്ടർ രാംകുമാർ മുമ്പ് ചർച്ച ചെയ്തതുപോലെ ഇത് അക്കുറസിയോടും പ്രിസിഷനോടും താരതമ്യപ്പെടുത്താം നമ്മൾ നേടിയ ഡാറ്റ അല്ലെങ്കിൽ രേഖപ്പെടുത്തിയ അളവുകൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ അവയിൽ പ്രവർത്തിക്കുന്നതിന് സാധുതയുള്ളതായിരിക്കണം രണ്ട് പ്രധാന തരത്തിലുള്ള പിശകുകൾ ഉണ്ട് സിസ്റ്റമാറ്റിക് എറർ റാൻഡം എറർ എന്നിവയും നമ്മൾ ചർച്ച ചെയ്യും അതിനുമുമ്പ് സാധുവായ ഒരു അളവ് എന്താണെന്ന് ഞാൻ ചർച്ച ചെയ്യും ഈ മാട്രിക്സിൽ 4 അളവുകൾ ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും മധ്യഭാഗത്ത് എത്തുമ്പോൾ കൃത്യമായ ഫലം ഉണ്ടായിരിക്കണം ഇത് കൃത്യമായ ഫലമാണ് കേന്ദ്രത്തിൽ ഞാൻ ക്വാഡ്രൻറ് നമ്പർ 4 ലാണ് ആദ്യത്തെ ക്വാഡ്രന്റിൽ നിങ്ങൾക്ക് കാണാം ഇത് ക്വാർട്ടർ നമ്പർ 1 2 3 4 എന്നിവയാണ് ആദ്യ ക്വാഡ്രന്റിൽ നിങ്ങൾക്ക് ഫലങ്ങൾ കാണാൻ കഴിയും എല്ലാം ചിതറിക്കിടക്കുന്നു അതിനാൽ ഇത് വിശ്വസനീയമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം അല്ലെങ്കിൽ നമ്മൾ എടുത്ത നിരീക്ഷണങ്ങൾ എന്തുതന്നെയായാലും അവ വിശ്വസനീയമല്ല കാരണം അവ വളരെ ക്രമരഹിതമായി ചിതറിക്കിടക്കുന്നു അതിനാൽ ഇത് ഒരു സ്കാറ്ററാണ് ഇത് ഒരു ക്രമരഹിതമാണ് പക്ഷേ ഇത് നമ്മുടെ സ്വീകാര്യമാണ് ഇത് ഈ ടാർഗെറ്റ് ബോർഡിനുള്ളിലാണ് അതിനാൽ അതുകൊണ്ടാണ് ഇത് സാധുതയുള്ളത് അതിനാൽ ക്വാഡ്രന്റ് നമ്പർ 2 ൽ ഇത് വിശ്വസനീയമല്ലാത്തതും അസാധുവായതുമാണ് ഈ ഡോട്ടുകളുടെയെല്ലാം ശരാശരി ഞാൻ എടുക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം ദൂരം കേന്ദ്രത്തിൽ നിന്നാണ് അതിനർത്ഥം ഈ ദൂരം എ ബി സി ഡി അങ്ങനെ എടുക്കുന്നു ഞാൻ ഈ ദൂരങ്ങളുടെ ശരാശരി അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള ദൂരം എടുത്താൽ അന്തിമഫലം ഇവിടെ ആയിരിക്കും ഇത് ശരാശരിയാണ് ശരാശരി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പദത്തിൽ നമ്മൾ ഇതിനെ ഒരു ശരാശരി എന്ന് വിളിക്കുന്നു കേന്ദ്രത്തിൽ നിന്നുള്ള ദൂരം ഞാൻ അതിനെ ഒരു പോസിറ്റീവ് ദിശയായി എടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാം ഇത് നെഗറ്റീവ് ദിശയായും ഇവിടെ നിന്ന് പോസിറ്റീവ് നെഗറ്റീവ് വരെയുമാണ് ഈ ദൂരം നിങ്ങൾക്കറിയാം ഈ പോയിന്റ് മിക്കവാറും ഈ പോയിന്റ് റദ്ദാക്കുമെന്ന് ഞാൻ പറയട്ടെ ഈ പോയിന്റ് ഏകദേശം ഈ പോയിന്റ് റദ്ദാക്കും അതിനാൽ മൊത്തത്തിൽ ശരാശരി ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് ശരാശരി ആയി എടുത്താൽ ശരാശരി 0 ആയിരിക്കും 0 അർത്ഥമാക്കുന്നത് കൃത്യമായി കേന്ദ്രത്തിൽ ആണ് എന്നതാണ് അതുകൊണ്ടാണ് ഈ ഡാറ്റ ഇത്തരത്തിലുള്ള വിവരങ്ങൾ കുറച്ച് സാധുതയുള്ളത് എന്നിരുന്നാലും ഇതിൽ രണ്ടാം ഭാഗം വിശ്വസനീയമല്ല ക്വാഡ്രൻറ് 2 ൽ ഇത് വിശ്വസനീയമല്ല സാധുതയുള്ളതല്ല എന്നാൽ ഈ ഭാഗത്ത് ക്വാഡ്രന്റ് നമ്പർ 3 ഇത് വിശ്വസനീയമാണ് കാരണം ഡാറ്റ വളരെ അടുത്താണ് നാലാം നമ്പറിൽ ഇത് വിശ്വസനീയവും സാധുതയുള്ളതുമാണ് ഇത് കേന്ദ്രത്തിലാണ് കൂടാതെ എല്ലാ നിരീക്ഷണങ്ങളും അടുത്താണ് ഇപ്പോൾ ഞാൻ അക്ക്യൂറസിയെയും പ്രെസിഷനെയും കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇത് നന്നായി നിർണ്ണയിക്കാനോ നന്നായി പരിശോധിക്കാനോ കഴിയും ഇത് യഥാർത്ഥത്തിൽ അക്യൂറേറ്റ് ഉം പ്രീസൈസ് ഉം ആണ് ഇത് പ്രീസൈസ് ആണ് അക്യൂറേറ്റല്ല ഇത് പ്രീസൈസല്ല പക്ഷേ ഇത് അക്യൂറേറ്റ് ആണ് ഇതാണ് യഥാർത്ഥ നിർവചനം അക്ക്യൂറസി എന്നാൽ അക്ക്യൂറസിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മൊത്തത്തിലുള്ള ഡാറ്റ കണ്ടെത്തേണ്ടതുണ്ട് എന്താണ് പ്രധാനം സ്കാറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ പ്രവർത്തിക്കാൻ കഴിയും അതിനാൽ ഇത് ഒരു റാൻഡം എറർ ആണ് സ്ഥിതിവിവരക്കണക്കുകളിൽ നമ്മൾ റാൻഡം എറർ ൽ പ്രവർത്തിക്കുന്നു ഇത് ക്വാഡ്രന്റ് നമ്പർ 3 ലാണ് അവിടെയുള്ള തരത്തിലുള്ള പിശക് ഒരു സിസ്റ്റമാറ്റിക് എററായിരിക്കും സിസ്റ്റമാറ്റിക് എറർ മൂല്യങ്ങൾ എല്ലാം വലതുവശത്ത് ആണ് ആരെങ്കിലും ഈ കാര്യം ടാർഗെറ്റുചെയ്യുകയാണെങ്കിൽ അത് ഇടത്തേക്ക് 45 ഡിഗ്രിയിൽ താഴെയായി വരണം അത് മധ്യഭാഗത്തേക്ക് വരും അതിനാൽ ഈ ദൂരം നമ്മുടെ പക്ഷപാതമാണ് എന്നാൽ ഇവിടെ നമുക്ക് ക്വാഡ്രന്റ് നമ്പർ 2 ൽ കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയില്ല ഇത് അവിടെ ഇല്ല ഇവ അക്യൂറേറ്റ് ആണ്പ്രീസൈസല്ല അതിനാൽ ഡാറ്റ സാധുവായിരിക്കണം അടുത്തത് മറ്റൊരു അളവെടുക്കൽ രീതിയാണ് അളവെടുപ്പിന്റെ വിവിധ തരംതിരിവുകളിൽ എനിക്ക് ഉൾപ്പെടുത്താമായിരുന്നു ഈ അളവ് ലീനിയർ വേഴ്സസ് സ്റ്റേബിൾ ആണ് ലീനിയറും സ്റ്റേബിളുമാണ് വ്യത്യസ്ത തരം അളവുകൾ ലീനിയർ മെഷർമെന്റ് രീതി സിസ്റ്റത്തിന്റെ അളക്കൽ രീതി ലീനിയർ എന്ന് വിളിക്കുന്നത് അതിന് പക്ഷപാതമില്ലെങ്കിൽ അല്ലെങ്കിൽ ബയസ് സ്ഥിരമാണെങ്കിൽ ആയിരിക്കും അടുത്തത് സ്റ്റേബിൾ പ്രീസൈസ് ഉം ഏത് അളവെടുപ്പിനും ഇതിന്റെ ബയസും കാലക്രമേണ മാറ്റമില്ലാതെ തുടരുക ആണെങ്കിൽ സിസ്റ്റത്തിന്റെ അളവെടുക്കൽ രീതിയെ സ്റ്റേബിൾ എന്ന് വിളിക്കുന്നു അതിനാൽ ലീനിയർ ഉം സ്റ്റേബിൾ ഉം ഇവിടെ ലീനിയർ അളവ് ഏതെന്ന് നിങ്ങൾക്ക് കാണാമോ നിങ്ങൾ നിർവചനം വീണ്ടും കാണുന്നു അതിന് പക്ഷപാതമില്ല അളവുകളിൽ പക്ഷപാതം സ്ഥിരമായിരിക്കും ഇത് ലീനിയർ ആണെന്നും ഇത് ലീനിയർ ആണെന്നും ഞാൻ കരുതുന്നു ഇവിടെ അതിന് പക്ഷപാതമില്ല ഇവിടെ പക്ഷപാതം സ്ഥിരമാണ് അതിനാൽ കൂടുതലും നമ്മൾ ഇത്തരത്തിലുള്ള ഡാറ്റയിൽ പ്രവർത്തിക്കും വിശ്വസനീയമല്ലാത്തതും എന്നാൽ സാധുതയുള്ളതുമായ ഡാറ്റ അതിനാൽ ഇത്തരത്തിലുള്ള ഡാറ്റ ലഭിക്കുന്നത് അത് പ്രധാനമായും ക്വാഡ്രൻറ് ഒന്നിലാണ് മാത്രമല്ല ചില സ്ഥിതിവിവരക്കണക്ക് അനുമാനങ്ങൾ കൊണ്ടു വരുന്നതിനായി നമ്മൾ ഇതിൽ പ്രവർത്തിക്കുന്നു അടുത്തത് അനിശ്ചിതത്വമാണ് അനിശ്ചിതത്വം പിശകുകൾക്ക് തുല്യമാണ് അല്ലെങ്കിൽ സമാനമാണ് അളവുകളിലെ പിശകുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവ സ്ഥിതിവിവരക്കണക്കുകളിൽ തുല്യമാണ് നമ്മൾ അതിനെ അനിശ്ചിതത്വം എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് അതിനെ പിശക് എന്നും വിളിക്കാം എനിക്ക് ഇത് പരസ്പരം മാറ്റാൻ കഴിയും എന്നിരുന്നാലും പിശകുകളും അനിശ്ചിതത്വങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് ചിലപ്പോൾ പിശകുകൾ എന്നത് അവിടെ സംഭവിച്ച തെറ്റുകൾക്കും ഉപയോഗിക്കുന്നു എന്നാൽ ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ നിർദ്ദിഷ്ട മൊഡ്യൂളിൽ പിശകിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പിശകുകൾ തെറ്റല്ല പിശകുകൾ ഫലങ്ങൾ ഉറപ്പില്ലാത്ത അനിശ്ചിതത്വമാണ് അതിനുള്ള കാരണം എന്താണെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് നമുക്ക് അത് എങ്ങനെയെങ്കിലും ശരിയാക്കാമോ നമ്മൾ അത് കാണാൻ ശ്രമിക്കും അതിനാൽ അനിശ്ചിതത്വം അത് പിശകിന്റെ കണക് ആണ് പിശകിന്റെ എസ്റ്റിമേറ്റ് അനിശ്ചിതത്വം എന്നറിയപ്പെടുന്നു അതിൽ പക്ഷപാതവും പ്രെസിഷൻ പിശകുകളും ഉൾപ്പെടുന്നു ഉപകരണങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ പിശകുകളും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രധാനപ്പെട്ട എല്ലാ പിശകുകളും സിഗ്നിഫിക്കൻസ് എന്ന പദം ഇവിടെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു ഞാൻ ഈ വാക്ക് കൂടി പറയുന്നു എന്താണ് സിഗ്നിഫിക്കൻസ് അതിന് എന്തെങ്കിലും സ്വാധീനമുണ്ടോ ഇതിന് എന്തെങ്കിലും ഫലമുണ്ടോ ഇത് എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ വാസ്തവത്തിൽ ഇത് സിഗ്നിഫിക്കൻസ് അർഹിക്കുന്നുണ്ടോ ഇല്ലയോ പിശകുകൾ പ്രധാനമാണെങ്കിൽ നമ്മൾ അതിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് കാര്യമായിരുന്നില്ലെങ്കിൽ നമ്മൾ അത് അവഗണിച്ചേക്കാം അല്ലെങ്കിൽ ഉപകരണങ്ങൾ കാരണം അല്ലാത്ത ചില പിശകുകൾ ഉണ്ടാകാം അവയെ നോയ്സ് എന്ന് വിളിക്കുന്നു നമ്മൾ അത് ചർച്ച ചെയ്തു നമുക്ക് സിഗ്നൽ നോയ്സ് അനുപാതം ഉണ്ട് അവയാണ് ബാഹ്യ ഘടകം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത പാരിസ്ഥിതിക ഘടകങ്ങൾ നമ്മുടെ പരിതസ്ഥിതിയിൽ പരീക്ഷണാത്മക സജ്ജീകരണത്തിനുള്ളിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ അവയാണ് നല്ല ഘടകങ്ങൾ നോയ്സ് അനുപാതം എടുത്തു അവയാണ് ഘടകങ്ങൾ അവ പ്രവർത്തിക്കുന്ന പിശകുകളാണ് അനിശ്ചിതത്വം പിശകിന്റെ കണക്കാക്കലാണ് മാത്രമല്ല ഉപകരണങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട എല്ലാ പിശകുകൾക്കും ഇത് തിരിച്ചറിയേണ്ടതുണ്ട് എല്ലാ അളവുകളും 3 ഭാഗങ്ങളായി നൽകണം നമ്പർ 1 ശരാശരി മൂല്യം നമ്പർ 2 അനിശ്ചിതത്വ നമ്പർ ഈ അനിശ്ചിതത്വം അടിസ്ഥാനമാക്കിയുള്ള ഒരു കോൺഫിഡൻസ് ഇന്റർവെൽ ആണ് സിഗ്നിഫിക്കൻസ്നെക്കുറിച്ചും കോൺഫിഡൻസ് ഇന്റർവെൽനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും സ്ഥിതിവിവരക്കണക്കുകളിൽ ചില അനുമാനങ്ങളുണ്ട് അതിനാൽ ഇവിടെ 95 ശതമാനം കോൺഫിഡൻസ് ഇന്റർവെൽ എന്നാൽ സിഗ്നിഫിക്കൻസ് നില 100 മൈനസ് 95 ശതമാനം 5 ശതമാനത്തിന് തുല്യമാണ് ഇതാണ് സിഗ്നിഫിക്കൻസ് നില പ്രോബബിലിറ്റി ഡിസ്ട്രിബൂഷനെക്കുറിച്ചും പ്രത്യേകിച്ചും നോർമൽ ഡിസ്ട്രിബൂഷനെക്കുറിച്ചും ഞാൻ ചർച്ച ചെയ്യും പ്രധാനപ്പെട്ട സ്ഥിതിവിവരക്കണക്കുകളുടെ കോൺഫിഡൻസ് ഇന്റർവെൽ സിഗ്നിഫിക്കൻസ് നിലകൾ മറ്റുള്ളവയുടെ പാരാമീറ്റർ എന്നിവയെക്കുറിച്ച് ഞാൻ സംസാരിക്കും കോൺഫിഡൻസ് ഇന്റർവെൽ എന്നത് ആത്മവിശ്വാസം അല്ലെങ്കിൽ നമ്മൾ പറയുന്നതെന്തും ഇത് പ്രധാനമാണെന്നും ഇത് നമ്മുടെ അനിശ്ചിതത്വമാണെന്നും 95 ശതമാനം ആത്മവിശ്വാസത്തോടെയാണ് നമ്മൾ പറയുന്നത് 100 ശതമാനം ആത്മവിശ്വാസം ഒരിക്കലും ഇല്ല ഇതാണ് അനിശ്ചിതത്വത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ ഇത് സ്ഥിതിവിവരക്കണക്കുകളുടെ സ്വഭാവമാണ് നമുക്ക് കോൺഫിഡൻസ് നിലയുണ്ട് മെക്കാനിക്കൽ അളവുകളിൽ 99 ശതമാനം കോൺഫിഡൻസ് നിലയും ഉണ്ടാകാം അത്തരം മൈക്രോ മാനുഫാക്ചറിംഗ് അല്ലെങ്കിൽ നാനോ നിർമ്മാണത്തിൽ ചിലപ്പോൾ കോൺഫിഡൻസ് ഇന്റർവെൽ 99 997 ആണ് ഇവയെ 6 സിഗ്മ എന്ന് വിളിക്കുന്നു നമ്മൾ അവ ചർച്ച ചെയ്യും അതിനാൽ നമ്മൾ അത് പറയണം മൊത്തത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മുടെ കോൺഫിഡൻസ് ഇന്റർവെൽ എന്താണ് അതിനാൽ നിങ്ങൾക്ക് 95 ശതമാനം ആത്മവിശ്വാസമുണ്ടെങ്കിൽ എന്താണ് സ്വാധീനം നിങ്ങൾക്ക് 90 ശതമാനം ആത്മവിശ്വാസമുണ്ടെങ്കിൽ എന്താണ് സ്വാധീനം നിങ്ങൾ 99 ശതമാനം ആണെങ്കിൽ എന്താണ് സ്വാധീനം അതിനാൽ നമുക്ക് എന്ത് പറയാൻ കഴിയും ചിലപ്പോൾ അത് സംഭവിക്കുന്നു ഇത് 90 ശതമാനത്തിൽ പ്രധാനമാണ് പക്ഷേ 99 ശതമാനമല്ല 90 ശതമാനം കോൺഫിഡൻസ് ഇന്റർവെൽ ഡാറ്റയ്ക്ക് സിഗ്നിഫിക്കൻസ്ണ്ടെന്ന് നമുക്ക് 99 ശതമാനം വിശ്വാസമുണ്ട് 99 ശതമാനത്തിൽ അത് പാടില്ല നോർമൽ കർവ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇത് ചർച്ച ചെയ്യും

അതിനാൽ അനിശ്ചിതത്വത്തിന് ചില പ്രത്യേകതകൾ ഉണ്ട് ഇത് റിലേറ്റീവ് പദങ്ങളിൽ നൽകാം അബ്സോല്യൂട്ട് നിബന്ധനകൾ ആയും നൽകാം അതിനാൽ ഇത് രണ്ട് വഴികളിലൂടെയും പ്രകടിപ്പിക്കാൻ കഴിയും റിലേറ്റീവ് പദങ്ങൾ അർത്ഥമാക്കുന്നത് അനിശ്ചിതത്വം ഇത് യഥാർത്ഥത്തിൽ ശരാശരി മൂല്യം ഒപ്പം എന്തെങ്കിലും ശരാശരി മൂല്യത്തിലേക്ക് നമ്മൾ ചേർക്കുന്ന ഒന്നാണ് മൂല്യം ചേർക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നത് അനിശ്ചിതത്വമാണ് അതിനാൽ എന്റെ മൂല്യത്തിന്റെ അർത്ഥത്തിൽ ആണ് അനിശ്ചിതത്വം അതിനാൽ അത് സ്വാധീനമാണ് ഉയരം IG ഞാൻ ചില ഉപകരണത്തിന്റെ ഉയരം കണക്കാക്കുന്നു ഈ പേനയുടെ ഉയരം ഞാൻ പറയട്ടെ ഇത് ഏകദേശം 150 മില്ലീമീറ്ററാണ് ഇത് യഥാർത്ഥത്തിൽ സ്റ്റൈലസാണ് അതിനാൽ ഇത് ഏകദേശം 150 മില്ലീമീറ്ററാണ് അതിനാൽ ഇത് പ്ലസ് മൈനസ് ഒരു മൂല്യം ആയിരിക്കാം അതായത് 150 മില്ലീമീറ്റർ പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0 5 മില്ലീമീറ്റർ ഇതാണ് ശരാശരി മൂല്യം ഇതാണ് നമ്മുടെ അനിശ്ചിതത്വം ഞാൻ എപ്സിലോൺ ഇട്ടു അബ്സോല്യൂട്ട് പദങ്ങളിൽ അബ്സോല്യൂട്ട് പദങ്ങൾ എന്തായിരിക്കാം താരതമ്യേന എനിക്ക് ഇവിടെ ശതമാനം തിരഞ്ഞെടുക്കാനാകും അതിനാൽ ഇത് 150 mm പ്ലസ് മൈനസ് ആകാം അപ്പോൾ 150 ൽ 0 5 എന്താണ് ഇത് യഥാർത്ഥത്തിൽ ഡെൽറ്റ L ബൈ L ആണ് അതായത് നീളം ഇവിടെ L ആണ് ഞാൻ യഥാർത്ഥത്തിൽ ഡെൽറ്റ L ബൈ L ഗുണം 100 കണക്കാക്കുന്നു അതായത് ഡെൽറ്റ L ശതമാനം 0 5 ബൈ 150 ഗുണം 100 50 ബൈ 150 എന്നതിൽനിന്ന് വരുന്നു ഞാൻ ഇത് ക്രോസ് ചെയ്യുന്നത് 0 33 ന് തുല്യമാണ് പ്ലസ് മൈനസ് 0 33 ശതമാനം

അതിനാൽ അബ്സോല്യൂട്ട് പദങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അനിശ്ചിതത്വം റിലേറ്റീവ് പദങ്ങളിൽ ഒരേ യൂണിറ്റുകളിലാണ് ഇത് ശതമാനമാണ് അല്ലെങ്കിൽ ഇത് മറ്റേതെങ്കിലും അളവോ ക്വാർട്ടൈലോ ആകാം അതിനാൽ പിശകിന്റെ തരങ്ങൾ 2 പ്രധാന തരം സിസ്റ്റമാറ്റിക് എറർ റാൻഡം എറർ സിസ്റ്റമാറ്റിക് എറർകളിൽ ഒരു ഉപകരണം ഉപയോഗിച്ച് സമാന പിശക് മൂല്യം ലഭിക്കും അതേ തരത്തിൽ ഞാൻ കാണിച്ച പക്ഷപാതിത്വം പോലെ സമാന പിശക് മൂല്യം വരുന്നു ഇതൊരു സിസ്റ്റമാറ്റിക് എറർ ആണ് ഇതാണ് റാൻഡം എറർ ഇവിടെ നമ്മൾ പറയുന്നത് ഒരേ രീതിയിൽ ഒരു ഉപകരണം ഉപയോഗിക്കുന്നതിലൂടെ ഒരേ പിശക് മൂല്യം ലഭിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് സംഗതി എന്തെന്നാൽ മറ്റെല്ലാ വ്യവസ്ഥകളും അതേപടി നിലനിൽക്കുന്നുവെന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ ഉപകരണം ഒന്നുതന്നെയാണ് ഒരുപക്ഷേ ഉപകരണവും പരീക്ഷണവും പരിസ്ഥിതി സാഹചര്യങ്ങളും ഒന്നുതന്നെയാണ് അതിനാൽ ഇവിടെ പിശക് മൂല്യം തുല്യമാണ് അതിനാൽ പിശക് മൂല്യം ഏതായാലും പിശക് മൂല്യം തുല്യമാണ് അതിനാൽ 5 വോൾട്ട് അന്തിമ യഥാർത്ഥ മൂല്യമായിരിക്കണം 5 1 5 1 5 1 5 12 11 എന്ന ഫലങ്ങൾ ഉണ്ടെങ്കിൽ അതിനാൽ ഇത് ഒരു സിസ്റ്റമാറ്റിക് എറർ ആണ് റാൻഡം എറർ ഇത് നിരീക്ഷണത്തിൽ നിന്ന് നിരീക്ഷണത്തിലേക്ക് വ്യത്യാസപ്പെടാം ഒരുപക്ഷേ എല്ലാ സമയത്തും ഒരേ രീതിയിൽ അളവുകൾ നടത്താൻ കഴിയാത്തത് കാരണം ഈ പിശക് പരിസ്ഥിതിയിലെ മാറ്റം ഉപകരണത്തിലെ മാറ്റം അവസ്ഥയിലെ മാറ്റം കാലാവസ്ഥാ വ്യതിയാനം ഒരു പരീക്ഷണത്തിലെ മാറ്റം എന്നിവ കാരണം ആയിരിക്കാം പക്ഷേ പിശക് ക്രമരഹിതമാണ് അത് ചിതറിക്കിടക്കുന്നു അതിനാൽ അത് അത്തരത്തിലുള്ള ഒന്നാണ് ഇത് 5 1 5 11 5 19 5 32 പോലെയാണ് 82 ആകാം നിങ്ങൾക്ക് 4 95 4 98 5 32 ആകാം ഇത് റാൻഡം എറർ ആണ് ഇതാണ് വോൾട്ടേജ് അതിനാൽ ശരാശരി മൂല്യത്തെ അനുസരിച്ച് ലഭിച്ച പരീക്ഷണ മൂല്യങ്ങൾ ക്രമരഹിതമായി എടുക്കുന്ന പിശകിനെ റാൻഡം എറർ എന്ന് വിളിക്കുന്നു അനിയന്ത്രിതമായ വേരിയബിളുകളുടെ ഫലങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമത്തിലെ വ്യതിയാനങ്ങൾ ഇവയാണ് ഇതുപോലുള്ള ചില കാരണങ്ങളുണ്ടാകാം അടുത്തതായി എന്താണ് ഒരു പിശക് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം ആ പിശക് അനിശ്ചിതത്വത്തിന് തുല്യമാണ് അത് തെറ്റിന് തുല്യമല്ല തെറ്റ് ചിലപ്പോൾ ഒരു അജ്ഞത പോലെയാണ് അശ്രദ്ധ അല്ലെങ്കിൽ പാരിസ്ഥിതിക അവസ്ഥകൾ വ്യത്യസ്തമാണ് ഒരു ഉപകരണം ഉപയോഗിച്ചുള്ള ചില പരീക്ഷണങ്ങൾ രണ്ടാമത്തെ ഉപകരണം ഉപയോഗിച്ച് മറ്റൊരു പരീക്ഷണം ഉദാഹരണത്തിന് ഒരു റീഡിങ് എടുക്കുന്നതിന് നിങ്ങൾ ഒരു കമ്പനിയുടെ വെർനിയർ കാലിപ്പറും മറ്റൊരു റീഡിങ് എടുക്കുന്നതിന് വ്യത്യസ്ത തരം സ്കെയിലുകളുള്ള വെർനിയർ കാലിപ്പറും ഉപയോഗിച്ചിരിക്കാം ഇവ ഒരുതരം അശ്രദ്ധയാണ് തെറ്റുകൾ അല്ല നമ്മൾ ജോലിക്ക് പോകുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനത്തിന് പ്രയോഗിക്കേണ്ട ഡാറ്റ ജനറേറ്റ് ചെയ്യാൻ പോകുന്നുവെങ്കിൽ ഡാറ്റ കഴിയുന്നത്ര കൃത്യമായിരിക്കേണ്ടത് പ്രധാനമാണ് അതിനാൽ പിശകുകൾ അനിശ്ചിതത്വത്തിന് തുല്യമാണ് നമ്മൾ പ്രവർത്തിക്കുന്ന കണക്കുകൂട്ടലിലോ അളവുകളിലോ ഉള്ള തെറ്റുകൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ പരീക്ഷണാത്മക പിശക് കണക്കാക്കുന്നതിനുമുമ്പ് എല്ലായ്പ്പോഴും ശരിയാക്കണം അതിനാൽ അളന്ന മൂല്യം ശരാശരി മൂല്യത്തിനും കൂടാതെ പിശകിനും തുല്യമാണ് ഈ ശരാശരി മൂല്യം x ന്റെ അളവിന്റെ ഏറ്റവും മികച്ച എസ്റ്റിമേറ്റാണ് കൂടാതെ ഡെൽറ്റ x എന്നത് അളവുകളിലെ അനിശ്ചിതത്വമോ പിശകോ ആണ് അതിനാൽ പിശക് അബ്സോല്യൂട്ട് അല്ലെങ്കിൽ ശതമാനം പിശകോ ആകാം വ്യവസ്ഥാപിതമോ ക്രമരഹിതമോ ആയ പിശകുകൾ നമ്മൾ ചർച്ച ചെയ്തതുപോലെ മറ്റ് തരത്തിലുള്ള പിശകുകളും നമ്മൾ ചർച്ചചെയ്തു റാൻഡം എറർകളിലാണ് നമ്മൾ കൂടുതലും പ്രവർത്തിക്കുന്നത് തെറ്റായ കാലിബ്രേഷൻ അല്ലെങ്കിൽ ഉപകരണത്തിന്റെ തെറ്റായ ഉപയോഗം അവസ്ഥയിലെ മാറ്റം എന്നിവ കാരണം സിസ്റ്റമാറ്റിക് എറർ സംഭവിക്കാം ഉദാഹരണത്തിന് താപനില ഉയരുന്നത് പരീക്ഷണത്തിന്റെയും മറ്റെല്ലാ കാര്യങ്ങളുടെയും മാറ്റമായിരിക്കാം അതിനാൽ നമ്മൾ പ്രവർത്തിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ വ്യതിയാനം സ്ഥിതിവിവരക്കണക്ക് എന്നിവയാണ് റാൻഡം എറർ അതിനാൽ പിശകുകളെ ഈ രീതിയിൽ പ്രതിനിധീകരിക്കാം റിലേറ്റീവ് പിശക് ശതമാനം പിശക് റിലേറ്റീവ് പിശക് ഇതാണ് ഞാൻ ഇപ്പോൾ കണക്കാക്കിയത് ശരാശരി മൂല്യത്തിന്റെ ഒരു യൂണിറ്റിലെ അടങ്ങിയിരിക്കുന്ന പിശക് ശതമാനം പിശക് 100 റിലേറ്റീവ് പിശക് ഗുണം 100 ആണ് ഇത് യൂണിറ്റിന്റെ ശരാശരി മൂല്യത്തെ 100 ആക്കി മാറ്റുന്നു ഇത് യഥാർത്ഥത്തിൽ ശതമാനമാണ് അതിനാൽ യഥാർത്ഥത്തിൽ നമുക്ക് യഥാർത്ഥ മൂല്യമില്ല അത് ചില യഥാർത്ഥ മൂല്യമാണെന്ന് നമുക്കറിയാം നമ്മൾ സൃഷ്ടിക്കുന്ന ഡാറ്റയാണ് എസ്റ്റിമേറ്റ് ആണ് നമ്മൾ സൃഷ്ടിക്കുന്നത് യഥാർത്ഥ മൂല്യത്തിന്റെ എസ്റ്റിമേറ്റ് അതിനാൽ ആ എസ്റ്റിമേറ്റ് ആണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അതിനാൽ പിശകിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്ന പ്രോപ്പർട്ടികൾ ഉണ്ട് ഉദാഹരണത്തിന് 3 മൂല്യങ്ങളുണ്ടെങ്കിൽ പിശക് ഇനിപ്പറയുന്നവയാണ് x ന് പിശക് ഡെൽറ്റ x ആണ് y ന് പിശക് ഡെൽറ്റ y ആണ് z ന് പിശക് ഡെൽറ്റ z ആണ് അന്തിമഫലം അതായത് ഫലം ഞാൻ ഇവിടെ ഇടും ഫലമായി x പ്ലസ് y പ്ലസ് z ന് തുല്യമാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നു ഈ കേസിൽ പിശകുകൾ എങ്ങനെ പ്രവർത്തിക്കും പരമാവധി പിശക് എന്താണെന്ന് നമ്മൾ കാണേണ്ട പ്രോപ്പർട്ടി ആണ് ഇത് ഡെൽറ്റ x ഡെൽറ്റ y ഡെൽറ്റ z എന്നിവയ്ക്കൊപ്പം ഒരു പ്ലസ് മൈനസ് ചിഹ്നമുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ പരമാവധി മൂല്യം കാണുന്നതിന് മുകളിലുള്ള പരിധി കാണുന്നതിന് പിശകുകൾ എല്ലായ്പ്പോഴും ചേർക്കുകയും മാത്രമല്ല റിലേറ്റീവ് മൂല്യങ്ങൾ ചേർക്കുകയും ചെയ്യുന്നു അതിനാൽ മൊത്തത്തിലുള്ള പിശകിന് ഡെൽറ്റ ആർ എന്ന് എനിക്ക് പറയാൻ കഴിയും ഇവിടെ തുല്യമായിരിക്കും ഞാൻ കൃത്യമായി തുല്യം എന്ന് പറയുന്നില്ല ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ പ്ലസ് ഡെൽറ്റ z മോഡുലസിന് തുല്യമാണ് R ന്റെ മൂല്യം ആണെങ്കിലും മൂല്യം 5 പ്ലസ് മൈനസ് 0 16 പ്ലസ് മൈനസ് 0 3 ആണെങ്കിൽ അത് 7 പ്ലസ് മൈനസ് 0 4 ആണെങ്കിൽ ഞാൻ പറയട്ടെ ഇവ മൂല്യങ്ങളും r ന്റെ മൂല്യവും ആണെങ്കിൽ ശരാശരി മൂല്യം 5 പ്ലസ് 6 പ്ലസ് 7 ആയിരിക്കും ഇത് 18 ന് തുല്യമാണ്

നിങ്ങൾ അതിനെ mm എന്ന് വിളിക്കുന്നു നിങ്ങൾ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നതെന്തും നിങ്ങൾ അതിനെ വിളിക്കുന്നു നിങ്ങൾ ചിലപ്പോൾ അതിനെ നീളം എന്ന് വിളിക്കുന്നു നമുക്ക് ഇല്ലാത്ത താപനില ഇത് തുടർച്ചയാണ് വ്യത്യസ്ത തരം സ്കെയിലുകൾ എന്താണെന്നും ഞാൻ ചർച്ച ചെയ്യും നിങ്ങൾക്കറിയാമോ താപനില എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഒരുതരം ആവശ്യം ഒരു പിശക് അല്ലെങ്കിൽ ഒരു തെറ്റ് ആകുന്നു കാരണം നമ്മൾ ഒരിക്കലും താപനില ചേർക്കുന്നില്ല താപനില ഒരു അനുപാത സ്കെയിലിലല്ല അത് ഒരു ഇന്റർവെൽ സ്കെയിലിലാണ് ഒരു വസ്തുവിന്റെ താപനില 25 ഡിഗ്രിയാണെങ്കിൽ മറ്റൊരു വസ്തു 10 ഡിഗ്രിയാണെങ്കിൽ അവയെ ഒന്നിച്ച് നിർത്തിയാൽ താപനില 25 ആയിരിക്കും എന്ന് നമുക്ക് പറയാനാവില്ല പ്ലസ് 10 ഇത് 35 ഡിഗ്രി ആയിരിക്കും അതിനാൽ ഇത് സാധ്യമല്ല അത് ഒരു ഇന്റർവെൽ സ്കെയിലിലാണ് പക്ഷേ നീളമോ ഉയരമോ നമ്മൾ അവ ചേർക്കുന്നത് എങ്കിൽ ചേർക്കാൻ കഴിയും അതിനാൽ പരമാവധി പിശക് എന്തായിരിക്കാം ഇവിടെ പരമാവധി പിശക് 0 1 പ്ലസ് 0 3 പ്ലസ് 0 4 ഇത് 0 8 മില്ലിമീറ്ററിന് തുല്യമാണ് ഇത് ഒരു ഉയർന്ന പരിധിയാണെന്ന് ഓർമ്മിക്കുക അതിനാൽ ഇത് ഡെൽറ്റ r ആണ് എനിക്ക് ഇത് കൂടുതൽ വ്യക്തമാക്കണമെങ്കിൽ എനിക്ക് ഇത് പ്ലസ് മൈനസ് 0 8 മില്ലീമീറ്ററിന് തുല്യമായി ഇടാം അതിനാൽ അടുത്തത് ഗുണന ഘടകമാണ് നിങ്ങൾ പിശക് പദം ഗുണിക്കുകയോ വിഭജിക്കുകയോ ചെയ്താൽ എന്തുചെയ്യും X പ്ലസ് ഡെൽറ്റ x y പ്ലസ് ഡെൽറ്റ y z പ്ലസ് ഡെൽറ്റ z എന്നിവ സമാന മൂല്യങ്ങൾ ഞാൻ പരിഗണിക്കുന്നു അതിനാൽ അതിൻറെ ഫലം x ഗുണം y ബൈ z ആണ് അതിനാൽ ഇവിടെ ഡെൽറ്റ r x പ്ലസ് മൈനസ് ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ വൈ പ്ലസ് മൈനസ് ഡെൽറ്റ വൈ അല്ലെങ്കിൽ z പ്ലസ് മൈനസ് ഡെൽറ്റ z എന്നിവയ്ക്ക് തുല്യമാകാം റിലേറ്റീവ് പിശകിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അതാണ് അബ്സോല്യൂട്ട് പിശകുകളുടെ ആകെത്തുക അതിനാൽ അബ്സോല്യൂട്ട് പിശക് എന്താണ് ഡെൽറ്റ r ബൈ r ഇത് വീണ്ടും അബ്സോല്യൂട്ട് പിശകിന്റെ ആകെത്തുകയാണ് ഇതുപോലുള്ള സമാനമായ രീതിയിൽ ഞാൻ ഇതിനെ സമവാക്യം 1 എന്ന് വിളിക്കുന്നു ഇത് സമവാക്യം 2 സമവാക്യം 3 ഡെൽറ്റ x ബൈ x ഡെൽറ്റ y ബൈ y ഡെൽറ്റ zബൈ z റിലേറ്റീവ് മൂല്യങ്ങൾ ആകെത്തുക എന്നിവയാണ് ഇതാണ് നമ്മുടെ മുകളിലെ പരിധി അതിനാൽ പിശകുകളെ ഒരു സ്ഥിരം മൂല്യവുമായി ഗുണിച്ചാൽ എന്തുചെയ്യും ഫലം തുല്യമാണെങ്കിൽ സ്ഥിരമായ മൂല്യം A ലേക്ക് സംഗ്രഹിക്കുക പിശക് സ്ഥിരമായ സമയങ്ങൾ റിലേറ്റീവ് പിശക് അതിനാൽ ഇവിടെ റിലേറ്റീവ് പിശക് a തവണ ഡെൽറ്റ x ന് തുല്യമാണ് ഇപ്പോൾ നമ്മൾ പിശകിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പിശകുകൾ റിലേറ്റീവ് പദങ്ങളാണ് അതിനാൽ യഥാർത്ഥ മൂല്യത്തെ പരിഗണിക്കാതെ തന്നെ സ്ഥിരാങ്കത്തിന്റെ സമ്പൂർണ്ണ മൂല്യം നമ്മൾ ഇവിടെ ഇടും അതിനാൽ നിങ്ങൾ സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബ് അല്ലെങ്കിൽ ഒരു സംഖ്യയ്ക്ക് ഡിഗ്രി നൽകിയാൽ എന്തുചെയ്യും ഉദാഹരണത്തിന് r എന്നത് x പവർ n ന് തുല്യമാണെങ്കിൽ റിലേറ്റിവ് പിശക് റിലേറ്റിവ് പിശകിന്റെ എക്സ്പൊണൻറെ തവണയാണ് അതിനാൽ ഇവിടെ നമ്മൾ അബ്സോല്യൂട്ട് പിശകുകൾ മാത്രം എടുക്കും നമ്മൾ ഇവിടെ ഇതിന്റെ ലോഗ് എടുക്കുന്നു അതിനാൽ ഡെൽറ്റ r ബൈ r n തവണ ഡെൽറ്റ x ബൈ x റിലേറ്റീവ് മൂല്യങ്ങൾക്ക് തുല്യമാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പിശക് കണക്കാക്കേണ്ടതുണ്ട് കൂടാതെ ഒരു ഉപകരണം ശരിയാക്കേണ്ടതുണ്ട് അതിനാൽ ഉപകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള തിരുത്തലിനെ സ്റ്റാറ്റിക് തിരുത്തൽ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ചേർക്കുകയോ കുറയ്ക്കുകയോ ചെയ്താൽ അത് പ്രകൃത്യ സങ്കലനമാണ് അത് ഗുണിതമാണെങ്കിൽ നമ്മൾ അതിനെ കറക്ഷൻ ഫാക്ടർ എന്ന് വിളിക്കുന്നു മിക്കപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ലീനിയർ സ്വഭാവമുള്ളവയാണ് അതിനാൽ നമ്മൾ തിരുത്തൽ ഘടകമല്ല സ്റ്റാറ്റിക് തിരുത്തൽ ഉപയോഗിക്കും തിരുത്തൽ ഘടകം ഗുണിക്കുകയും സ്റ്റാറ്റിക് തിരുത്തൽ ചേർക്കുകയും ചെയ്യുന്നു അതിൽ അടയാളം ഉൾപ്പെട്ടിരിക്കാം ഇത് രണ്ടും ചേർക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാം അടുത്തതായി ഞാൻ ചില ഉദാഹരണങ്ങൾ എടുക്കാൻ ശ്രമിക്കും ഉദാഹരണത്തിന് ഒരു മീറ്റർ ഒരു വോൾട്ട്മീറ്റർ എടുക്കുന്നു എങ്കിൽ ഉദാഹരണം 1 വോൾട്ട്മീറ്റർ റീഡിങ് 127 5 വോൾട്ടിന് തുല്യമാണ് യഥാർത്ഥ മൂല്യം 127 43 വോൾട്ടിന് തുല്യമാണ് അതിനാൽ ചോദ്യം നമ്പർ 1 എന്താണ് സ്റ്റാറ്റിക് പിശക് നമ്പർ 2 എന്താണ് സ്റ്റാറ്റിക് തിരുത്തൽ ഓർമ്മിക്കുക സ്റ്റാറ്റിക് തിരുത്തൽ ഉപകരണത്തിനുള്ളതാണ് ഉപകരണത്തിൽ നമ്മൾ ചേർക്കേണ്ട സ്റ്റാറ്റിക് തിരുത്തൽ എന്താണ് ഈ ഉപകരണം ഉപയോഗിക്കുമ്പോഴെല്ലാം അത് ഉൾപ്പെടുത്തണം ചിലപ്പോൾ സ്റ്റാറ്റിക് തിരുത്തൽ അല്ലെങ്കിൽ തിരുത്തൽ ഘടകം സോഫ്റ്റ്വെയറിൽ നൽകിയിട്ടുണ്ട് ഇത് ഫോഴ്സ് കണക്കാക്കാൻ മെഷീനിംഗ് സമയത്ത് ഉപയോഗിക്കുന്നു ഫോഴ്സ് വൈദ്യുത സിഗ്നലായി പരിവർത്തനം ചെയ്യപ്പെടുന്നു കൂടാതെ വൈദ്യുത സിഗ്നൽ വോൾട്ടേജിലാണ് ആ വോൾട്ടേജ് പിന്നീട് ന്യൂട്ടണിലേക്ക് പരിവർത്തനം ചെയ്യും അവിടെ തിരുത്തൽ ഘടകം നൽകിയിരിക്കുന്നു ഈ പരിധിയിൽ സോഫ്റ്റ്വെയറിൽ തിരുത്തൽ ഘടകത്തിന് തുല്യമാണ് ഈ പരിധിക്ക് തിരുത്തൽ ഘടകം എന്തായാലും നിങ്ങൾ 1 5 ഒരു പോയിന്റ് പ്രയോഗിക്കുക അതിനാൽ ഇവിടെ ഇത് സ്റ്റാറ്റിക് തിരുത്തലാണ് കാരണം ഇവ പ്രകൃത്യ സങ്കലനമാണ് സ്റ്റാറ്റിക് തിരുത്തൽ കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ എന്താണ് സ്റ്റാറ്റിക് പിശക് ഇത് വളരെ എളുപ്പമാണെന്ന് കരുതുക അതിനാൽ ഞാൻ മൂന്നാമത്തെ റീഡിങ് r ആയി എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ R എന്നത് ഉപകരണത്തിൽ നിന്നുള്ള റീഡിങ്ന് തുല്യമാണ് അതായത് ശരാശരി മൂല്യം മൈനസ് റീഡിങ് അതായത് യഥാർത്ഥ മൂല്യം അതിനാൽ ഇത് 127 5 മൈനസ് 127 43 ന് തുല്യമാണ് ഞാൻ ഇത് 0 ആക്കും വോൾട്ട് 0 07 വോൾട്ടിന് തുല്യമാണ് അതിനാൽ ഇത് ഒരു പോസിറ്റീവ് മൂല്യമാണ് കൂടാതെ നമ്മൾ തിരുത്തൽ ഘടകം ചേർക്കേണ്ടിവരുമ്പോൾ മൂല്യം വരുന്നതെന്തും തിരുത്തൽ ഘടകം ആണ് അതിനാൽ സ്റ്റാറ്റിക് തിരുത്തലിനായി നമ്മൾ പ്രവർത്തിക്കേണ്ടിവരുമ്പോൾ സ്റ്റാറ്റിക് തിരുത്തൽ ശരാശരി മൂല്യത്തിൽ നിന്ന് കുറയ്ക്കുന്നു കാരണം ഇത് ഒരു പോസിറ്റീവ് ചിഹ്നമാണെങ്കിൽ അത് കുറയ്ക്കുന്നു വോൾട്ട്മീറ്റർ റീഡിങ് യഥാർത്ഥ മൂല്യത്തേക്കാൾ വലുതാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇവിടെ ഞാൻ പോസിറ്റീവ് അടയാളം നൽകി അതിനാൽ ഡെൽറ്റ സൂചിപ്പിക്കുന്ന സ്റ്റാറ്റിക് തിരുത്തൽ C തുല്യമാണ് മൈനസ് തവണ ഡെൽറ്റ R ഇത് മൈനസ് തവണ പ്ലസ് 0 07 V തുല്യമാണ് മൈനസ് 0 07 V തുല്യമാണ് അതിനാൽ ഇവിടെ സ്റ്റാറ്റിക് തിരുത്തൽ മൂല്യം മൈനസ് 0 007 ആണ് കൂടാതെ സ്റ്റാറ്റിക് പിശക് പ്ലസ് 0 07 ഉം ആണ് വോൾട്ട്മീറ്റർ ഉപയോഗിക്കുമ്പോഴെല്ലാം ഇത് യഥാർത്ഥത്തിൽ ശരാശരി മൂല്യമാണ് നിശ്ചിത എണ്ണം നിരീക്ഷണങ്ങളിൽ നിന്നുള്ള ശരാശരി മൂല്യമാണിത് അതിനാൽ യഥാർത്ഥ മൂല്യം ഉണ്ടെന്ന് നമുക്കറിയാം പ്രധാന മൂല്യം ഇതാണ് അതിനാൽ സ്റ്റാറ്റിക് പിശക് കണ്ടെത്തുന്നതിന് നമ്മൾ വ്യത്യാസം എടുത്തു സ്റ്റാറ്റിക് പിശകിൽ സ്റ്റാറ്റിക് പിശകിന്റെ നെഗറ്റീവ് f സ്റ്റാറ്റിക് തിരുത്തൽ ഇത് ഉദാഹരണം 1 അതിനാൽ ഞാൻ മറ്റൊരു ഉദാഹരണം തിരഞ്ഞെടുക്കും അതിനാൽ ഞാൻ ഒരു താപനില എടുക്കട്ടെ നിങ്ങൾ തെർമോമീറ്റർ റീഡിങ് പരിഗണിക്കുന്നു 102 66 ഡിഗ്രി ഫാരൻഹീറ്റാണ് തെർമോമീറ്റർ റീഡിംഗ് സ്റ്റാറ്റിക് തിരുത്തൽ നൽകിയിരിക്കുന്നു സ്റ്റാറ്റിക് തിരുത്തൽ 0 26 ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ് അതിനാൽ നമ്മൾ യഥാർത്ഥ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ നമുക്ക് എന്താണ് ഉള്ളത് ഇതാണ് നമ്മുടെ തെർമോമീറ്റർ റീഡിങ് ഇത് R m ന് തുല്യമാണ് ഇത് ഡെൽറ്റ r ന് തുല്യമാണ് അതിനാൽ ശരിയായ മൂല്യത്തെ ചോദ്യചിഹ്നത്തിന് തുല്യമായ യഥാർത്ഥ മൂല്യമായി നമുക്ക് കണ്ടെത്താനാകും ഇപ്പോൾ ഒരു യഥാർത്ഥ മൂല്യമായി എഴുതിയ യഥാർത്ഥ മൂല്യം R m മൈനസ് ഡെൽറ്റ R ന് തുല്യമാണ് 102 66 മൈനസ് 0 26 ന് തുല്യമാണ് 102 40 ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ് അതിനാൽ ഇത് രണ്ട് രീതിയിലും പ്രവർത്തിക്കാൻ കഴിയും അതിനാൽ ഒന്നിലധികം ഉദാഹരണങ്ങൾ ഇവിടെ പരിഹരിക്കാനാകും നമ്മൾ ക്വിസിലും ചില ചോദ്യങ്ങൾ ഇടും അബ്സോല്യൂട്ട് പിശകിനുള്ള ഈ ബന്ധവും ബന്ധങ്ങളും ഉപയോഗിച്ച് സമാന ഉദാഹരണങ്ങൾ പരിഹരിക്കാൻ കഴിയും റിലേറ്റീവ് പിശകുകൾക്കുള്ള ബന്ധം സമാന ഉദാഹരണങ്ങൾ പരിഹരിക്കാൻ കഴിയും ഈ കോഴ്സിലെ സൈദ്ധാന്തിക ഭാഗത്ത് ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അടുത്തത് ടൈപ്പ് എ ടൈപ്പ് ബി അനിശ്ചിതത്വങ്ങളാണ് അതിനാൽ ടൈപ്പ് എ ടൈപ്പ് ബി എന്നിവ എന്താണെന്ന് അറിയേണ്ടത് പ്രധാനമാണ് ടൈപ്പ് എ അനിശ്ചിതത്വം സംഖ്യാ അനിശ്ചിതത്വമാണ് അത് ഒരു അളവിന്റെ കണക്കുകൂട്ടലിനുള്ള ഇൻപുട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അളവെടുക്കുന്ന വ്യക്തിക്ക് ലഭ്യമായ നിരീക്ഷണ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൂട്ടലിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞതെങ്കിൽ അതിനാൽ ടൈപ്പ് എ അനിശ്ചിതത്വം നമ്മൾ നടത്തുന്ന പരീക്ഷണങ്ങളാണ് ചില ഉപകരണങ്ങളെ അടിസ്ഥാനമാക്കി ലഭിച്ച ഡാറ്റ കാരണം അനിശ്ചിതത്വം ടൈപ്പ് എ അല്ലെങ്കിൽ അത് വ്യക്തമായി പരാമർശിക്കുന്നു അത് ടൈപ്പ് ബി ആകാം അവ നമ്മൾ പരിഗണിക്കുന്നില്ല അവ നമ്മൾ നിയന്ത്രിക്കുന്ന ഘടകങ്ങളല്ല ടൈപ്പ് ബി അനിശ്ചിതത്വത്തിൽ നമ്മൾ കൂടുതൽ പ്രവർത്തിക്കുന്നില്ല എന്നിരുന്നാലും ടൈപ്പ് എ അനിശ്ചിതത്വം പ്രധാനമാണ് അതിനാൽ ഏതെങ്കിലും സ്ഥിതിവിവര വിശകലനം പ്രയോഗിക്കണമെങ്കിൽ അനിശ്ചിതത്വം ടൈപ്പ് എ അനിശ്ചിതത്വത്തിലായിരിക്കണം ടൈപ്പ് എ അനിശ്ചിതത്വം ഉപകരണം മൂലമാകാം നിരീക്ഷകൻ മൂലമോ അല്ലെങ്കിൽ പരീക്ഷണാത്മക അവസ്ഥ മൂലമോ പരീക്ഷണങ്ങൾ നടത്തുന്ന രീതി അതിനാൽ നമ്മൾ ടൈപ്പ് എ അനിശ്ചിതത്വങ്ങളിൽ പ്രവർത്തിക്കുന്നു അതിനാൽ ക്രമരഹിതമായ മിക്ക അനിശ്ചിതത്വങ്ങളും ടൈപ്പ് എ അനിശ്ചിതത്വങ്ങളാണ് അതിനാൽ ടൈപ്പ് എ അളക്കുന്നതിന് കൂടുതൽ സമയം വ്യത്യാസപ്പെടുന്നു ടൈപ്പ് എ അവ വ്യത്യാസപ്പെടുന്നു ഓരോ തവണ അളക്കുമ്പോഴും സവിശേഷതകൾ വ്യത്യാസപ്പെടുന്നു അതിനാൽ ഈ അനിശ്ചിതത്വം ധാരാളം അളവുകളിൽ ശരാശരി കുറയ്ക്കാൻ കഴിയും പക്ഷേ ഇത് ഒരിക്കലും പൂർണ്ണമായും ഒഴിവാക്കാനാവില്ല അതിനാൽ ഇത് കുറയ്ക്കാൻ കഴിയും പക്ഷേ ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല അതിനാൽ ഇത് ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല അതിനാലാണ് നമ്മൾ കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കാരണം 100 ശതമാനം ആത്മവിശ്വാസം ഒരിക്കലും റാൻഡം എറർകളിൽ വരില്ല ടൈപ്പ് ബി അനിശ്ചിതത്വങ്ങൾ അവ ക്രമരഹിതമല്ലാത്ത അനിശ്ചിതത്വങ്ങൾ ആണ് അവ ഓരോ തവണയും ആവർത്തിക്കാം അല്ലെങ്കിൽ വരില്ല അതിനാൽ ഇവ ചിലപ്പോൾ സിസ്റ്റമാറ്റിക് ഇത് ഒരുതരം സിസ്റ്റമാറ്റിക് എറർ മാത്രമാണ് ഇവ സിസ്റ്റമാറ്റിക് അനിശ്ചിതത്വങ്ങളാണ് അതിനാൽ ഇവ കാണപ്പെടുന്നു ഉപകരണത്തിന്റെ മികച്ച നിലവാരം പുലർത്തുന്നതിലൂടെ ടൈപ്പ് എ ടൈപ്പ് ബി അനിശ്ചിതത്വങ്ങൾ കുറയ്ക്കാൻ കഴിയും കാലിബ്രേഷനുകൾക്ക് ടൈപ്പ് എ അനിശ്ചിതത്വം കണക്കാക്കാൻ കഴിയും കൂടാതെ കാലിബ്രേഷന് ടൈപ്പ് ബി അനിശ്ചിതത്വത്തിന്റെ തോത് കുറയ്ക്കാനും കഴിയും എന്നാൽ എല്ലായ്പ്പോഴും ഒരു ചെറിയ അളവിലുള്ള അനിശ്ചിതത്വം ഉണ്ടാകും അത് ഉപകരണങ്ങളിൽ അവശേഷിക്കും അതിനാൽ ഇത് കൂടുതലും ടൈപ്പ് ബി അനിശ്ചിതത്വമാണ് എല്ലായ്പ്പോഴും ഇല്ലെങ്കിൽ മിക്കപ്പോഴും സിസ്റ്റമാറ്റിക് ആണ് കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ താപ സ്ഥിരത പോലെയാകാം ഞാൻ ഒരു നിർദ്ദിഷ്ട കേസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എന്നിവ താപനിലയെ സംവേദനക്ഷമമാക്കുന്ന നിരവധി സംവിധാനങ്ങളുണ്ടെന്ന് ഞാൻ പറയട്ടെ ഉദാഹരണത്തിന് മെറ്റൽ ഫോയിലിന്റെ റസിസ്റ്റന്സിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സ്ട്രെയിൻ ഗേജ് ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഗേജ് വയർ പ്രതിരോധ താപനിലയെ ആശ്രയിച്ചിരിക്കുന്നു മാറുന്ന താപനില പരിതസ്ഥിതിയിൽ ഒരു ഗേജ് ഉപയോഗിക്കുകയാണെങ്കിൽ താപനില മാറ്റം മൂലമുണ്ടാകുന്ന ഔട്ട്പുട്ട് മാറുന്ന സമ്മർദ്ദത്തിന് തെറ്റായി കാരണമാകും അതിനാൽ ഗേജ് നമ്മൾ ഇവിടെ ഉപകരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ചില സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വലിയ താപനില വ്യതിയാനങ്ങളുടെ പ്രഭാവം ഇവിടെ നിറവേറ്റാനാകും സാങ്കേതിക വിദ്യകൾ താപനില നഷ്ടപരിഹാരമായിരിക്കാം അതിനാൽ നഷ്ടപരിഹാരം നൽകാത്ത ചില ഇഫക്റ്റുകൾ ഉണ്ടാകും ഇത്തരത്തിലുള്ള അനിശ്ചിതത്വം ടൈപ്പ് എ അനിശ്ചിതത്വമാണ് അതിനാൽ ടൈപ്പ് ബി അനിശ്ചിതത്വത്തിനുള്ള ഉദാഹരണങ്ങൾ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കാത്ത എന്തും ആകാം ഹിസ്റ്റെറിസിസിന് എനിക്ക് ഒരു ഉദാഹരണം നൽകാം നമ്മൾ ഒരു സ്പ്രിംഗ് ലോഡു ചെയ്യുമ്പോഴോ അൺലോഡു ചെയ്യുമ്പോഴോ സ്പ്രിംഗ് ലോഡുചെയ്യും ലോഡ് വർദ്ധിക്കുമ്പോൾ ഹിസ്റ്റെറിസിസ് ഇതുപോലെയാണ് അതിനാൽ ഇവിടെ യഥാർത്ഥത്തിൽ ലോഡ് പ്രയോഗിച്ചു ഞാൻ ഇവിടെ നിർദ്ദേശം നൽകും അത് ഈ ദിശയിലേക്ക് നീങ്ങുന്നു ലോഡ് പ്രയോഗിക്കുകയും ഇത് ഇതുപോലെ വർദ്ധിക്കുകയും ചെയ്യുന്നു തുടർന്ന് ലോഡ് സ്കെയിലിൽ സൂചിപ്പിക്കും ഇതാണ് ലോഡ് ഒരു സ്കെയിലിൽ ഇത് യഥാർത്ഥ പ്രയോഗിച്ച ലോഡാണ് അതിനാൽ നമ്മൾ ഇത് അൺലോഡുചെയ്യുമ്പോൾ മികച്ച രീതിയിൽ മനസ്സിലാക്കുന്നതിനായി ഞാൻ മറ്റൊരു നിറം തിരഞ്ഞെടുക്കും നമ്മൾ ഇത് അൺലോഡുചെയ്യുമ്പോൾ ഇത് ഇതുപോലെയാകും അതിനാൽ എന്ത് സംഭവിക്കുന്നു ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കുറയുന്നു നീല വര കുറയുന്നു ഞാൻ ഇവിടെ ഒരു വരി ഇടുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു വരി ഇടുകയും യഥാർത്ഥ ലോഡിൽ പ്രയോഗിച്ച മൂല്യങ്ങൾ കാണുകയും ചെയ്താൽ മെക്കാനിക്കൽ ആളുകൾ ഇത് നന്നായി മനസ്സിലാക്കും അതിനാൽ ലോഡ് വർദ്ധിക്കുന്നതും കുറയുന്നതുമായ മൂല്യങ്ങൾ വ്യത്യസ്തമാണ് ഇത് കുറയുന്നതിനും ഇത് വർദ്ധിപ്പിക്കുന്നതിനുമുള്ളതാണ് അതിനാൽ സ്പ്രിംഗ് ലോഡു ചെയ്യുമ്പോഴോ അൺലോഡുചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ അളവ് എടുക്കുമ്പോഴോ ഇത്തരത്തിലുള്ള പിശക് ടൈപ്പ് ബി പിശക് ആണ് ഇത് എല്ലായ്പ്പോഴും നിലനിൽക്കും ഇത് ക്രമരഹിതമല്ല ഇത് എല്ലായ്പ്പോഴും നിലനിൽക്കണം ഇത് ഒരുതരം സിസ്റ്റമാറ്റിക് എറർ ആണ് അതിനാൽ ഇത് സ്പ്രിംഗ് ബാലൻസിന്റെ ഒരു ഉദാഹരണമാണ് അതിനാൽ ടൈപ്പ് എ ടൈപ്പ് ബി പിശകുകളാണ് വർഗ്ഗീകരണം അതിനാൽ ചിട്ടയായ ഫലങ്ങളുടെ തിരുത്തലുകൾ അളവെടുക്കൽ പ്രക്രിയയിലെ ചിട്ടയായ പ്രഭാവം തിരിച്ചറിഞ്ഞ് കണക്കാക്കുമ്പോൾ അത് ശരിയാക്കുന്നതിന് ഗണിതശാസ്ത്ര അളവെടുക്കൽ മാതൃകയിൽ ഒരു അളവ് ഉൾപ്പെടുത്തണം ഈ പ്രഭാഷണത്തിന്റെ അടുത്ത ഭാഗത്ത് നമുക്ക് കണ്ടുമുട്ടാം